എസ്പീരിമെന്റ യൂസിങ് ആക്സിലെറോമീറ്റർ ലെക്ചർ 39 ലേക്ക് സ്വാഗതം ഈ പരീക്ഷണത്തിൽ എസ്ടിഎം ബോർഡുമായി ആക്സിലറോമീറ്റർ എങ്ങനെ ഇന്റർഫേസ് ചെയ്യാമെന്നും കൂൾടെർമിലെ x y z ആക്സിസ് പോലുള്ള വ്യത്യസ്ത അക്ഷങ്ങൾക്ക് എന്ത് മൂല്യം ലഭിക്കുമെന്നും ഞാൻ കാണിക്കും എസ്ടിഎം ബോർഡിനൊപ്പം കൂൾടെർം എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞങ്ങൾക്കറിയാം Arduino നെ സംബന്ധിച്ചിടത്തോളം ഇത് സീരിയൽ മോണിറ്ററിൽ അച്ചടിക്കാൻ കഴിയുന്നതാണ് ആദ്യം ആക്സിലറോമീറ്റർ ഉപയോഗിച്ചുള്ള പരീക്ഷണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം തുടർന്ന് ഞാൻ പ്രകടനം നടത്തും അതിനാൽ ഇതാണ് ADXL 335 ആക്സിലറോമീറ്റർ ഞാൻ STM കിറ്റുമായി കണക്ഷൻ ചെയ്യും അതിനാൽ വോൾട്ടേജ് ഉറവിടം Vcc 5 വോൾട്ടിലേക്ക് ബന്ധിപ്പിക്കും എസ്ടിഎം ബോർഡിന്റെ ഗ്രണ്ട് പിൻയിലേക്ക് ജിഎൻഡി ബന്ധിപ്പിക്കും X OUT Y OUT Z OUT അനലോഗ് പിൻ ഔട്ട്പുട്ടുകൾ അനലോഗ് ഇൻപുട്ട് പിൻസുകളായ A0 A1 A2 എന്നിവയുമായി ബന്ധിപ്പിക്കും X അക്ഷത്തിൽ ചലിക്കുന്നതിനുള്ള ഈ വിശകലനം നമുക്ക് മനസിലാക്കാം നിങ്ങൾ ആക്സിലറോമീറ്റർ പിടിക്കുമ്പോൾ ആ ആക്സിലറോമീറ്ററിന് ചില അക്ഷങ്ങളുണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തും ഒന്ന് എക്സിനൊപ്പം മറ്റൊന്ന് Y ഇത് Z എന്നിവയാണ് ഈ എക്സിനൊപ്പം ആക്സിലറോമീറ്റർ പിടിക്കുമ്പോൾ ഇതിനുള്ള ഏറ്റവും ഉയർന്ന മൂല്യം നിങ്ങൾ കാണും X അതുപോലെ തന്നെ നിങ്ങൾ ഇത് ഇങ്ങനെയാണെങ്കിൽ X ന്റെ മൂല്യം ഏറ്റവും കുറഞ്ഞതായിരിക്കണം അതുപോലെ Y ന് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ പിടിക്കുകയാണെങ്കിൽ Y മൂല്യം പരമാവധി ആയിരിക്കും നിങ്ങൾ ഇത് ഈ രീതിയിൽ പിടിക്കുകയാണെങ്കിൽ Y മൂല്യം ഏറ്റവും കുറവായിരിക്കും ഇതിനെ ആശ്രയിച്ച് നിങ്ങൾക്ക് കഴിയും ഉപകരണം നേരെയാണോ അല്ലെങ്കിൽ ചരിഞ്ഞതാണോ അല്ലെങ്കിൽ അത് ലംബമായി ഇടത്തേക്ക് ചരിഞ്ഞതാണോ അല്ലെങ്കിൽ ലംബമായി വലതുവശത്തേക്ക് ചരിഞ്ഞതാണോ എന്ന് നിങ്ങൾ ഉപകരണം എങ്ങനെ പിടിക്കുന്നുവെന്ന് യഥാർത്ഥത്തിൽ മനസിലാക്കാൻ അതിനാൽ ഒരു ഉപകരണത്തിന്റെ വ്യത്യസ്ത ഓറിയന്റേഷൻ ഈ മൂല്യത്തിൽ നിന്ന് കണ്ടെത്താനാകും അതുപോലെ നിങ്ങൾ ഈ ദിശയിൽ ആക്സിലറോമീറ്റർ പിടിക്കുകയാണെങ്കിൽ Z മൂല്യം ഇവിടെ ഏറ്റവും കുറഞ്ഞതും Z മൂല്യം ഇവിടെ പരമാവധി ആയിരിക്കും എസ്ടിഎം കിറ്റ് ഉപയോഗിച്ച് ഞങ്ങൾ ഇത് പരീക്ഷിക്കും അതിനാൽ നമുക്ക് mbed C കോഡ് മനസിലാക്കാം Mbed ലൈബ്രറി mbed h ഉൾപ്പെടുത്തണമെന്ന് ഇത് പറയുന്നു ആദ്യം നമ്മൾ USBTX USBRX എന്നിവയുമായി "പിസി" എന്ന് പേരുള്ള ആശയവിനിമയത്തിലൂടെ സീരിയൽ ആശയവിനിമയം നടത്തണം X y z എന്നീ മൂന്ന് അനലോഗ് ഇൻപുട്ട് സിഗ്നലുകൾ ഞങ്ങൾ നിർവ്വചിക്കുകയും അവയെ യഥാക്രമം A0 A1 A2 എന്നിവയുമായി ബന്ധിപ്പിക്കുകയും ചെയ്തു X OUT Y OUT Z OUT എന്നിവ എസ്ടിഎം പിന്നുകളായ A0 A1 A2എന്നിവയുമായി ബന്ധിപ്പിക്കും തുടർന്ന് ഞങ്ങൾ പ്രധാന ഫംഗ്ഷനിലേക്ക് വരുന്നു പ്രധാന ഫംഗ്ഷനിൽ x1 y1 z1 എന്നീ മൂന്ന് വേരിയബിളുകൾ ഞങ്ങൾ നിർവചിക്കുന്നു അവിടെ x read u16 ഫംഗ്ഷൻ ഉപയോഗിച്ച് ഞങ്ങൾ അനലോഗ് മൂല്യം x1 വായിക്കുന്നു y1 ന് അത് y read u16 ആയിരിക്കും കൂടാതെ z1 അത് z read u16 ആയിരിക്കും ഞങ്ങൾ ഇതിനകം തന്നെ നിർമ്മിച്ച "പിസി" എന്ന സീരിയൽ ആശയവിനിമയത്തിലൂടെ x y z കോർഡിനേറ്റുകളുടെ മൂല്യങ്ങൾ പ്രിന്റുചെയ്യും അത് x1 y1 z1 എന്നീ വേരിയബിളുകളിൽ സംഭരിച്ചിരിക്കുന്നു ഇത് കുറച്ച് സമയത്തിനുള്ളിൽ പോകുന്നു ഇത് അച്ചടിച്ചുകഴിഞ്ഞാൽ അത് 1 സെക്കൻഡ് കാത്തിരിക്കും വീണ്ടും അതേ പ്രക്രിയ തന്നെ ചെയ്യും X y z കോർഡിനേറ്റ് മൂല്യങ്ങൾ എങ്ങനെ മാറുന്നുവെന്ന് കാണണമെങ്കിൽ നിങ്ങൾക്ക് അടിസ്ഥാനപരമായി എന്തുചെയ്യാൻ കഴിയും ഞങ്ങൾ ഇവിടെ കാണിക്കാത്തത് പ്രദർശിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് ചിലതരം മാറ്റ്ലാബ് കോഡും ഉപയോഗിക്കാം നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ കോഡുകൾ നിങ്ങളുമായി പങ്കിടാൻ കഴിയും x y z കോർഡിനേറ്റുകൾ പ്ലോട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവസാനം ശ്രമിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു കാര്യം ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ഈ മൂല്യം വായിക്കാനും എസ്എംഎസ് നിയന്ത്രണം ഉപയോഗിച്ച് ഞങ്ങൾ നേരത്തെ കാണിച്ചതുപോലെ ചില ഓൺലൈൻ ഡാറ്റാബേസിൽ സൂക്ഷിക്കാനും കഴിയും ഡാറ്റാബേസിൽ ഏത് മൂല്യവും സംഭരിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് പ്ലോട്ട് ചെയ്യാൻ കഴിയുമെന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അത് വിശകലനം ചെയ്യാൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ വിവിധ മാർഗങ്ങളുണ്ട് അവസാനമായി പ്ലോട്ട് ഇതുപോലെ കാണപ്പെടുന്നു ആക്സിലറോമീറ്ററിൽ നിന്നുള്ള സാമ്പിൾ ഔട്ട്പുട്ട് തരംഗമാണിത് ഇതാണ് x ആക്സിസ് y ആക്സിസ് z ആക്സിസ് മൂല്യങ്ങൾ ഇങ്ങനെയാണ് അവ മാറുന്നത് ചില സ്പൈക്കുകളുണ്ട് ഇവിടെയും നമുക്ക് കാണാൻ കഴിയും CoolTerm ഉപയോഗിച്ച് ഇതിന്റെ പ്രകടനം ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചുതരാം നിങ്ങൾ ഈ കൂൾടേം ഉപയോഗിക്കണം അവിടെ ഞാൻ ഡാറ്റ മായ്ക്കുന്നു അതിനാൽ ചില ഡാറ്റ വരുന്നു ആദ്യം ഞങ്ങൾ കണക്ഷൻ കാണും ഇത് 5 വോൾട്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന Vcc ആണ് ഇത് A0 മായി ബന്ധിപ്പിച്ചിരിക്കുന്ന x അക്ഷമാണ് ഇത് y അക്ഷമാണ് ഇത് A1 ലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു ഇത് A2 മായി ബന്ധിപ്പിച്ചിരിക്കുന്ന z ആണ് ഒടുവിൽ ഇത് ഗ്രൌണ്ട് പിൻലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ കണക്ഷൻ വളരെ ലളിതമാണ് കണക്ഷന് ഇതെല്ലാം ഇവിടെ ആവശ്യമാണ് ഇപ്പോൾ നിങ്ങൾ ഈ ആക്സിലറോമീറ്റർ ശരിയായി കാണുകയാണെങ്കിൽ ഇവിടെ x അക്ഷം ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ y അക്ഷം ഉണ്ട് ഇതാണ് z അക്ഷം ഈ രീതിയിൽ ഈ x അക്ഷത്തിലേക്ക് അമ്പടയാളം ഉപയോഗിച്ച് നിങ്ങൾ ആക്സിലറോമീറ്റർ പിടിക്കുമ്പോഴെല്ലാം x കോർഡിനേറ്റ് മൂല്യം ഏറ്റവും ഉയർന്നതായിരിക്കും ഈ രീതിയിൽ ഞാൻ ആക്സിലറോമീറ്റർ പിടിച്ചിട്ടുണ്ടെന്നും ഹൈപ്പർ ടെർമിനലിലെ x ന്റെ മൂല്യം കാണുമെന്നും നമുക്ക് പറയാം ഇപ്പോൾ x y z ആക്സിസ് മൂല്യങ്ങൾ കാണുക നിങ്ങൾക്ക് x ആക്സിസ് മൂല്യം 44058 y ആക്സിസ് 36873 തീർച്ചയായും ഇത് വ്യത്യാസപ്പെടുന്നു ഞാൻ വളരെ കർശനമായി പിടിച്ചിട്ടുണ്ടെങ്കിലും ഇത് സമാനമല്ല പക്ഷേ ഇപ്പോഴും ചില ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ y ആക്സിസ് മൂല്യം പരമാവധി ആയിരിക്കുമെന്ന് ഞാൻ ഉറപ്പാക്കും മുകളിൽ y അക്ഷത്തോടുകൂടിയ ആക്സിലറോമീറ്റർ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് എന്ത് മൂല്യങ്ങളാണ് ലഭിക്കുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഹൈപ്പർ ടെർമിനലിൽ കാണാൻ കഴിയും നമുക്ക് x ആക്സിസ് മൂല്യം 36728 ആയി ലഭിക്കുന്നു Y ആക്സിസ് മൂല്യം 44426 ഉം z ആക്സിസ് മൂല്യം 18628 ഉം ആണ് ആ പ്രത്യേക കാര്യത്തിന്റെ ഓറിയന്റേഷൻ എല്ലായ്പ്പോഴും ഇങ്ങനെയായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു ചെറിയ ബോക്സ് ഉണ്ടെന്ന് ഞങ്ങൾ പറയട്ടെ ആ പ്രത്യേക കാര്യത്തിന്റെ തല മുകളിലായിരിക്കണം അതിനാൽ x ആക്സിസ് മൂല്യം ഉയർന്നതായിരിക്കണമെന്ന് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഉറപ്പാക്കാൻ കഴിയും അതായത് നിങ്ങൾ ആക്സിലറോമീറ്റർ ആ ആപ്ലിക്കേഷനിൽ x ആക്സിസ് ഇതുപോലെയാണ് അതിനാൽ ഇത് ഇതുപോലെയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉയർന്നത് x ആക്സിസ് മൂല്യം ലഭിക്കും അത് ഏറ്റവും ഉയർന്നതല്ലെങ്കിൽ മറ്റ് രണ്ട് മൂല്യങ്ങളും ഏറ്റവും ഉയർന്നതാണ് നിങ്ങളുടെ ഉപകരണം ശരിയായി സ്ഥാപിച്ചിട്ടില്ലെന്ന് നിങ്ങൾക്കറിയാം ഉപകരണം ശരിയായി സ്ഥാപിച്ചിട്ടില്ലെന്ന് സൂചിപ്പിക്കുന്നതിന് ചിലതരം അലേർട്ടുകൾ നൽകാം ഈ പരീക്ഷണത്തിൽ നിന്ന് എസ്ടിഎം കിറ്റിലേക്ക് ആക്സിലറോമീറ്റർ എങ്ങനെ ഇന്റർഫേസ് ചെയ്യാമെന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഒരു ഉപകരണത്തിന്റെ ഓറിയന്റേഷൻ നിങ്ങൾക്ക് കണ്ടെത്തണമെങ്കിൽ ഇത് ഉപയോഗിച്ച് ഞങ്ങൾക്ക് ഇത് എങ്ങനെ കണ്ടെത്താനാകും ഒരു പ്രത്യേക ഉപകരണം ഒരു പ്രത്യേക രീതിയിൽ സ്ഥാപിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് ഉപയോഗിക്കുന്നത് ഉറപ്പാക്കാം മിക്ക മൊബൈൽ ഉപകരണങ്ങളിലും ഞങ്ങൾക്ക് ഈ ആക്സിലറോമീറ്റർ ഉണ്ട് ആരോഗ്യ നിരീക്ഷണം അത് കാണിക്കുന്നത് പോലുള്ള ചിലതരം ആപ്ലിക്കേഷനുകൾ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം നിങ്ങൾ എത്ര സ്റെപ്സ് നടന്നിട്ടുണ്ടെന്ന് ഇത് കാണിക്കുന്നു ഈ ഉപകരണം ഉപയോഗിച്ചാണ് ഇവ അളക്കുന്നത് ഞങ്ങളുടെ മൊബൈൽ ഫോണിനുള്ളിൽ ഞങ്ങൾക്ക് ഒരു ആക്സിലറോമീറ്റർ അല്ലെങ്കിൽ ഒരു ഗൈറോസ്കോപ്പ് ഉണ്ട് അത് ഒരു ദിവസത്തിൽ ഞങ്ങൾ ആക്സിലറേഷൻ ചലനം നൽകുന്നു തീർച്ചയായും ഈ ഉപകരണങ്ങളിലും ചില പ്രശ്നങ്ങളുണ്ട് കാരണം നിങ്ങൾക്ക് ഒരു ഞെട്ടലുണ്ടെങ്കിൽ നിങ്ങൾ നടക്കുന്നുവെന്ന് ഇത് അനുമാനിക്കും അതിനാൽ ഇതാണ് ഒരു ആപ്ലിക്കേഷൻ നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ